വളരെ ലളിതമായ ആപ്ലിക്കേഷനുകളിൽ കാര്യക്ഷമമായി ഉപയോഗിക്കുന്ന ക്ലോക്ക് ഡ്രൈവ്എൻ ഷെഡ്യൂളറുകൾ നമ്മൾ പരിശോധിച്ചു നിരവധി ചെറിയ എംബെഡ്ഡ്ഡ് ആപ്ലിക്കേഷനുകൾ സൈക്ലിക് ഷെഡ്യൂളറുകൾ ടേബിൾ ഡ്രൈവ്എൻ ഷെഡ്യൂളറുകൾ പോലുള്ള ഷെഡ്യൂളറുകൾ ഉപയോഗിക്കുന്നു എന്നാൽ കൂടുതൽ സങ്കീർണ്ണമായ ആപ്ലിക്കേഷനുകൾ ഇവന്റ് ഡ്രൈവ്എൻ ഷെഡ്യൂളറുകൾ ഉപയോഗിക്കുന്നു അവസാന പ്രഭാഷണത്തിലെ ഫോർഗ്രൌണ്ട ബാക്ക്ഗ്രൌണ്ട് ഷെഡ്യൂളർ വളരെ ലളിതമായ ഇവന്റ് ഡ്രൈവ്എൻ ഷെഡ്യൂളർ ആണെന് നമ്മൾ കണ്ടു ഇവന്റ് ഡ്രൈവ്എൻ ഷെഡ്യൂളർമാരെ സംബന്ധിച്ചിടത്തോളം ടാസ്ക് വരുമ്പോഴോ അല്ലെങ്കിൽ ഒരു ടാസ്ക് പൂർത്തിയാകുമ്പോഴോ ഷെഡ്യൂളിംഗ് പോയിന്റുകൾ ഉണ്ട് കാരണം ഒരു ടാസ്ക് ഇൻസ്റ്റൻസ് തയ്യാറാകുമ്പോൾ അല്ലെങ്കിൽ ഒരു ടാസ്ക് ഇൻസ്റ്റൻസ് എക്സിക്യൂഷൻ പൂർത്തിയാകുമ്പോൾ ഈ രണ്ട് ഇവന്റുകളും ആശങ്ക ഉണ്ടാകുന്നവയാണ് തുടർന്ന് ഷെഡ്യൂളർ പ്രവർത്തിക്കാൻ തുടങ്ങുന്നതിനുള്ള കോഡ് ഷെഡ്യൂളർ ഉണർത്തുന്നു അടുത്തതായി ഏത് ടാസ്ക് പ്രവർത്തിപ്പിക്കണമെന്ന് തീരുമാനികുനു ഇവന്റ് ഡ്രൈവ്എൻ ഷെഡ്യൂളറുകളുടെ വളരെ അടിസ്ഥാന തത്വമാണിത് നിരവധി തരത്തിലുള്ള ഇവന്റ് ഡ്രൈവ്എൻ ഷെഡ്യൂളറുകൾ ഉണ്ട് ഇവയെ നിസ്സാരമല്ലാത്ത ആപ്ലിക്കേഷനുകളിൽ വിപുലമായി ഉപയോഗിക്കുന്നു ഇവയെ പ്രീ എംപ്റ്റീവ് ഷെഡ്യൂളറുകൾ എന്ന് വിളിക്കുന്നു കാരണം ഉയർന്ന മുൻഗണനാ ടാസ്കുകൾകായി ഈ ഷെഡ്യൂളർമാർ കുറഞ്ഞ മുൻഗണനാ ഉള്ള ടാസ്കുകളെ പ്രീ എംപ്റ്റ് ചെയുന്നു ഒരു ഫ്രെയിം നിർണ്ണയിച്ചുകഴിഞ്ഞാൽ സൈക്ലിക് ഷെഡ്യൂളറുകൾ അതിൽ തന്നെ ഫ്രെയിം റൺ ചെയുന്നു കാരണം ഇത് നോൺ പ്രീ എംപ്റ്റ് ടൈപ്പ് ആണ് അതേസമയം ഇവിടെ ഏത് ടാസ്ക് ഇൻസ്റ്റൻസ് തയ്യാറാകുന്നു എന്നതിനെ ആശ്രയിച്ച് എക്സിക്യൂട്ടിംഗ് ടാസ്ക് ഇൻസ്റ്റൻസ് പ്രീ എംപ്റ്റഡ് ആകാം ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഇവിടെ വളരെ സങ്കീർണ്ണമാണ് ഇതിന് ഒരു ടാസ്ക് പ്രീ എംപ്റ്റഡ് ചെയാൻ കഴിയും ഇവരെ ഗ്രീഡി ഷെഡ്യൂളർമാർ എന്നും വിളിക്കുന്നു ഇവർ ഗ്രീഡീ ഷെഡ്യൂളറുകളാണ് കാരണം ഒരു ടാസ്ക് പൂർത്തിയാകുമ്പോൾ അത് കാത്തിരിക്കുന്ന ടാസ്ക് ഏറ്റെടുക്കുന്നു മാത്രമല്ല പ്രോസസ്സറിന്റെ ഏത് സമയവും ഉപയോഗശൂന്യമായി വിടാൻ ഇത് ഒരിക്കലും ശ്രമിക്കുന്നില്ല തയ്യാറായ ഒരു ടാസ്ക് ഉണ്ടെങ്കിൽ പ്രോസസ്സർ ഒരിക്കലും നിഷ്ക്രിയമാകുകയില്ല അതിനാൽ ഇവയെ ഗ്രീഡീ ഷെഡ്യൂളർ എന്ന് വിളിക്കുന്നു ഇവന്റ് ഡ്രൈവ്എൻ ഷെഡ്യൂളറുകളുടെ ഒരു വലിയ എണ്ണം ലഭ്യമാണ് പക്ഷേ രണ്ട് പ്രധാന തരം ഷെഡ്യൂളറുകൽ ആണ് ഉള്ളത് അവ ഏർലിസ്റ് ഡെഡ്ലൈൻ ഫസ്റ്റ് റേറ്റ് മോണോടോണിക് അനാലിസിസ് എന്നിവയാണ് സ്റ്റാറ്റിക് പ്രിയോറിറ്റി ഷെഡ്യൂളറിന്റെ ഉദാഹരണമാണ് റേറ്റ് മോണോടോണിക് അൽഗോരിതം ഡിസൈനർ തന്റെ ഡിസൈൻ സമയത്ത് ടാസ്ക്കുകൾക്ക് മുൻഗണന നൽകുന്ന ഒന്നാണ് സ്റ്റാറ്റിക് പ്രിയോറിറ്റി ഷെഡ്യൂളർ പ്രോഗ്രാമർ അവർക്കു നൽകിയ ടാസ്ക് മുൻഗണന ഒരിക്കൽ റൺടൈമിൽ മാറില്ല കൂടാതെ ഈ ക്ലാസ് ഷെഡ്യൂളറുകളിൽ സ്റ്റാറ്റിക് പ്രിയോറിറ്റി ഷെഡ്യൂളർ തിയേറ്റർ മോണോടോണിക് അൽഗോരിതം ആണ് സ്റ്റാറ്റിക് പ്രിയോറിറ്റി ഷെഡ്യൂളിംഗ് അൽഗോരിതം ഈ അൽഗോരിതം വൈവിധ്യമാർന്നതായി നമ്മൾ കാണും പക്ഷേ റേറ്റ് മോണോടോണിക് ഒരു ഒപ്റ്റിമൽ അൽഗോരിതം ആണ് ഇതിന് ടാസ്ക്കുകൾ പ്രവർത്തിപ്പിക്കാൻ കഴിയും മറ്റ് അൽഗോരിതം പ്രവർത്തിപ്പിക്കാൻ കഴിയാത്ത ടാസ്ക് സെറ്റ് സജ്ജമാക്കുക നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ വിശദമായ ഫലങ്ങൾ കാണും ഇവന്റ് ഡ്രൈവ്എൻ ഷെഡ്യൂളറിന്റെ മറ്റൊരു വിഭാഗം ഡൈനാമിക് ഷെഡ്യൂളർ അല്ലെങ്കിൽ ഡൈനാമിക് പ്രയോറിറ്റി ഷെഡ്യൂളർ ആണ് ഇവിടെ പ്രയോറിറ്റി സ്ഥിരമായിരിക്കില്ല പക്ഷേ സാഹചര്യത്തെ ആശ്രയിച്ച് ഒരു ടാസ്കിന്റെ മുൻഗണന ഷെഡ്യൂളർ മാറ്റിയേക്കാം ടാസ്ക് പൂർത്തിയാക്കുന്നതിന്റെ അടിയന്തിരാവസ്ഥ കാരണം ഇവിടെ ടാസ്ക്കലിൻറെ മുൻഗണന ഷെഡ്യൂളർ മാറ്റിയേക്കാം ഒരു ടാസ്ക് വളരെക്കാലം കാത്തിരിക്കാം മാത്രമല്ല അതിന്റെ ഡെഡ്ലൈൻ മിസ്സ് ചെയാനും പോകുകയാണ് തുടർന്ന് ഷെഡ്യൂളർ അതിന്റെ മുൻഗണന വർദ്ധിപ്പിക്കും അതിന്റെ ഡെഡ്ലൈൻ പാലിക്കാൻ അതിന് കഴിയുമെന്ന് ഇതൊക്കെ ഡൈനാമിക് ഷേഡ്യൂളർ ആണ് ഇവിടെ ഷെഡ്യൂളർ ടാസ്കുകളുടെ പ്രിയോറിറ്റി മാറ്റികൊണ്ടിരിക്കുന്നു EDF അല്ലെങ്കിൽ ഏർലിസ്റ് ഡെഡ്ലൈൻ ഫസ്റ്റ് ഷെഡ്യൂളർ ഒപ്റ്റിമൽ യൂണിപ്രൊസസ്സർ ഷെഡ്യൂളിംഗ് അൽഗോരിതം ആണ് ഇതിനർത്ഥം EDF ഉപയോഗിച്ച് ഒരു ഷെഡ്യൂൾ പ്രവർത്തിപ്പിക്കാൻ കഴിയുന്നില്ലെങ്കിൽ ഒരു ടാസ്ക് സെറ്റ് നൽകിയാൽ EDF നു ഇത് ഷെഡ്യൂൾ ചെയ്യാൻ കഴിയില്ല ഡൈനാമിക് പ്രിയോറിറ്റി ആണെകിലും സ്റ്റാറ്റിക് പ്രിയോറിറ്റിയാണെങ്കിലും മറ്റൊരു യൂണിപ്രൊസസ്സർ ഷെഡ്യൂളിംഗ് അൽഗോരിതത്തിനു ഇത് പ്രവർത്തിപ്പിക്കാൻ കഴിയില്ല സ്റ്റാറ്റിക് പ്രിയോറിറ്റിയാണെങ്കിലും ഡൈനാമിക് പ്രിയോറിറ്റി ഷെഡ്യൂളിംഗ് അൽഗോരിതം ഉൾപ്പെടെയുള്ള ഒപ്റ്റിമൽ യൂണിപ്രൊസസ്സർ ഷെഡ്യൂളിംഗ് അൽഗോരിതം ഇതാണ് EDF ഒപ്റ്റിമൽ യൂണിപ്രൊസസ്സർ ഷെഡ്യൂളിംഗ് അൽഗോരിതം ആണ് ഒരു ടാസ്ക് സെറ്റ് EDF ഉപയോഗിച്ച് പ്രവർത്തിപ്പിക്കാൻ കഴിയുന്നില്ലെങ്കിൽ മറ്റ് ഷെഡ്യൂളറുകൾ ഉപയോഗിച്ച് ഇത് പ്രവർത്തിപ്പിക്കാൻ കഴിയില്ല ഫലങ്ങളെക്കുറിച്ച് കൂടുതൽ നോക്കാം നമ്മുടെ ചർച്ച ആരംഭിക്കുന്നതിന് നമുക്ക് ഒരു യൂണിപ്രൊസസ്സർ ഉള്ളതും ലളിതമായ ജോലികൾ സെറ്റ് ചെയുന്നതുമായ ടാസ്ക്കുകൾ സ്വതന്ത്രമായി പരിഗണിക്കും അതായത് ടാസ്ക്കുകൾ റിസോഴ്സ്സ് പങ്കിടുന്നില്ല അതായത് ഒരു ടാസ്ക് സെറ്റ് ചെയ്ത ഫലം മറ്റ് ടാസ്ക്കുകൾ ഉപയോഗിക്കുന്നില്ല ഒരു മുൻഗണനയുമില്ല അതായത് ഒരു ടാസ്ക് റൺ ചെയ്തു തീര്നിറെ അടുത്തതു തുടങ്ങു എന്നൊനും ഇല്ല അത്തരം സാഹചര്യങ്ങൾ നിലവിലില്ല ഇതാണ് ഏറ്റവും ലളിതമായ സാഹചര്യം സ്വതന്ത്ര ടാസ്ക്കുകളുള്ള യൂണിപ്രൊസസ്സർ പക്ഷേ പ്രായോഗികമാകണമെന്നില്ല കാരണം പല ആപ്ലിക്കേഷനുകൾക്കും മൾട്ടിപ്രൊസസ്സർ ഉപയോഗിക്കുന്നുണ്ട് അല്ലെങ്കിൽ പരസ്പരം ഫലങ്ങൾ പങ്കിടുന്ന ടാസ്ക്കുകൾ ഞങ്ങൾക്ക് ഉണ്ടായിരിക്കാം അല്ലെങ്കിൽ മുൻഗണനാ ക്രമം ഉണ്ടായിരിക്കാം ടാസ്ക്കുകൾ റിസോഴ്സ്സ് പങ്കുവെക്കുകയും ഷെഡ്യൂളർ മുൻഗണനാ ക്രമത്തിൽ ചെയ്യേണ്ട ആവശ്യകതകൾക്ക് ഉത്തരം നൽകുകയും ഷെഡ്യൂളർമാർക്കും മൾട്ടി പ്രോസസറിനും ആവശ്യമായ മാറ്റങ്ങൾക്കു നമ്മൾ ഇവിടെ ഇളവ് നൽകും EDFന് ഒരു കൂട്ടം ടാസ്ക്കുകൾ പ്രവർത്തിപ്പിക്കാൻ കഴിയുന്നില്ലെങ്കിൽ ഈ ടാസ്ക്കുകൾ പ്രവർത്തിപ്പിക്കാൻ കഴിയുന്ന മറ്റൊരു ഷെഡ്യൂളറെ അന്വേഷിക്കേണ്ട ആവശ്യമില്ല കാരണം ഇത് പ്രവർത്തിപ്പിക്കാൻ കഴിയുന്ന ഒരു ഷെഡ്യൂളറും നിലവിലില്ല ഒരു പ്രധാന ഷെഡ്യൂളറാണ് EDF ഇത് ഒപ്റ്റിമൽ ആണ് വെല്ലുവിളി നിറഞ്ഞ ഡെഡ്ലൈൻ നിശ്ചയിച്ചിട്ടുള്ള ഏത് സങ്കീർണ്ണമായ ജോലികൾക്കും അതിനായി സാധ്യമായ ഒരു ഷെഡ്യൂൾ EDF കണ്ടെത്താനാകും മാത്രമല്ല ഇത് രണ്ടും ഷെഡ്യൂൾ ചെയ്യാനും കഴിയും പീരിയോഡിക് അപീരിയോഡിക് ജോലികൾ ഏത് ഷെഡ്യൂളിംഗ് പോയിന്റിലും ഷെഡ്യൂളർ ഏറ്റവും കുറഞ്ഞ ഡെഡ്ലൈൻ തയാറായ ടാസ്ക് അയയ്ക്കുന്നു ഷെഡ്യൂളർ റൺ ചെയാൻ തുടങ്ങുമ്പോൾ എല്ലാം ഇതാണ് EDFന്റെ അടിസ്ഥാനം ഇത് കാത്തിരിക്കുന്ന എല്ലാ ടെസ്റ്റുകളും നോക്കുന്നു അതിന്റെ ഡെഡ്ലൈൻ എന്താണുള്ളത് കണ്ടുപിടിക്കുന്നു അതിൽ നിന്നും ഏറ്റവും ചെറിയ ഡെഡ്ലൈൻ ഏതാണെന്ന് കണ്ടുപിടികുനു അതിനേ സ്റ്റാർട്ട് ചെയ്യുന്നു ഇതാണ് അൽഗോരിത്തിന്റെ ക്രക്സ് അതിനാൽ അൽഗോരിത്തിന്റെ പേര് ഇവിടെ നിന്ന് വരുന്നു അതായത് ഏർലിസ്റ് ഡെഡ്ലൈൻ ഫസ്റ്റ് ഓരോ ഷെഡ്യൂളിംഗ് പോയിന്റിലും ഏർലിസ്റ് ഡെഡ്ലൈൻ ഉള്ള ടാസ്ക്കുകൾക്കായി ഇത് തിരയുന്നു തുടർന്ന് ഇത് ഷെഡ്യൂൾ ചെയ്യുന്നതിന് ആദ്യം എടുക്കും ഇതിനെ നമ്മൾ ഏർലിസ്റ് ഡെഡ്ലൈൻ ഷെഡ്യൂളർ എന്ന് വിളിക്കുന്നു കാരണം ഇത് എല്ലാ ഷെഡ്യൂളിൽ പോയിന്റ് ലും ഷെഡ്യൂളർ പ്രവർത്തിക്കാൻ ആരംഭിക്കുന്നു അതിനുശേഷം തയ്യാറായി നിൽക്കുന്ന എല്ലാ ടാസ്കുകളെയും ഇത് ചെക്ക് ചെയ്യുന്നു ഏർലിസ്റ് ഡെഡ്ലൈൻ ഉള്ള ടാസ്കിനെ കണ്ടുപിടിക്കുന്നു അതിനുശേഷം അത് റൺ ചെയ്യാൻ ആരംഭിക്കുന്നു റൺ ചെയ്യുന്ന മറ്റേതെങ്കിലും ടാസ്ക്കളെ ഇത് പ്രീ എംപ്ട് ചെയ്യാനുള്ള സാധ്യതയും ഉണ്ട് അടിസ്ഥാനപരമായി ഒരു ഷെഡ്യൂളിംഗ് പോയിന്റ് ഉള്ളപ്പോൾ ചില ടാസ്ക്കുകൾ ഒരു ഷെഡ്യൂളിംഗ് പോയിന്റിൽ പ്രവർത്തിക്കാൻ സാധ്യതയുണ്ടോ എന്നതാണ് ചോദ്യം ഉത്തരം അതെ രണ്ട് തരത്തിലുള്ള ഷെഡ്യൂളിംഗ് പോയിൻറുകൾ ഉണ്ട് ഒന്ന് ടാസ്ക് പൂർത്തികരണം ആണ് തീർച്ചയായും അതായത് ആ ടാസ്ക് ഷെഡ്യൂളിംഗിൽ ടാസ്ക് പൂർത്തിയാക്കുമ്പോൾ ടാസ്ക് പ്രവർത്തിക്കുമെന്ന് അറിയാം പക്ഷേ ടാസ്ക് വരവ് കാരണം മറ്റ് തരം ഷെഡ്യൂളിംഗ് പോയിൻറുകൾ ഉണ്ടാകുന്നു ഒരു പീരിയോഡിക് ടാസ്ക് ഇൻസ്റ്റൻസ് വരുമ്പോൾ ആ സമയത്ത് മറ്റേതെങ്കിലും ടാസ്ക് പ്രവർത്തിക്കുന്നുണ്ടാകാൻ സാധ്യതയുണ്ട് തുടർന്ന് ഷെഡ്യൂളർ 2 ടാസ്ക്കുകളുടെ റിലേറ്റീവ് ഡെഡ്ലൈൻ പരിശോധിക്കും തുടർന്ന് വന്നവയ്ക്ക് ഷോർട്ടർ ഡെഡ്ലൈൻ ഉണ്ടെങ്കിൽ അത് റണ്ണിംഗ് ടാസ്കിനെ പ്രീ എംപ്ട് ചെയ്യണം മാതൊരു പ്രധാന പദം ടാസ്ക് സെറ്റ്ഇന്ടെ ഷേഡ്യൂളബിലിറ്റി ആണ് അതു ഉദേശിക്കുന്നത് EDF നു അതു റൺ ചെയാൻ സാധിക്കുമോ എന്നതും EDF ന്ടെ ഷേഡ്യൂളബിലിറ്റി എക്സ്പ്രെഷൻ വളരെ ലളിതമാണ് ഇത് ∑eipi ആണ് n ടാസ്കുകൾ ഉണ്ടെകിൽ അതായത് 1 മുതൽ n വരെ അപ്പോൾ ∑eipi eipi നമ്മൾ നേരതെ പറഞ്ഞതു പോലെ ഇത് അടിസ്ഥാനപരമായി ടാസ്കിന്റെ യൂട്ടിലൈസഷൻ ആണ് ഇതു ei എക്സിക്യൂഷൻ എടുക്കുന്നു pi ഡ്യൂറഷൻനു അതുകൊണ്ട് ടാസ്കിന്റെ യൂട്ടിലൈസഷൻ ti എന്നത് eipi ആണ് ഇതിനെ നമ്മൾ ey എന്നു റെപ്രെസെന്റ് ചെയുന്നു ey ടാസ്ക് ti അതായത് eipi കാരണം ഉണ്ടാകുന്ന യൂട്ടിലൈസഷൻ ആണ് അതോടൊപ്പം യൂട്ടിലൈസേഷൻ 1 ആയിരിക്കുമ്പോൾ എല്ലാ ടാസ്ക്കളുടെയും യൂട്ടിലൈസേഷൻ നമുക്ക് കൂട്ടി എടുക്കാം ഇവിടെ ടാസ്ക് സെറ്റ് ഷെഡ്യൂൾ ഡബിൾ ആണ് അതല്ലെങ്കിൽ ഇത് തൃപ്തികരമാണ് ഏർലിസ്റ് ഡെഡ്ലൈൻ ഫസ്റ്റ് ഷെഡ്യൂൾറിനായി ഈ പദപ്രയോഗം EDF ഷെഡ്യൂളർമാരുടെ ഷെഡ്യൂളിബിളിറ്റിക്ക് ആവശ്യമായതും മതിയായതുമായ അവസ്ഥയാണ് ഉദാഹരണത്തിന് നമുക്ക് 2 ടാസ്ക്കുകൾ ഉണ്ട് അവയുടെ നിർവ്വഹണ ടൈം പീരിയഡ്ഉം ഡെഡ്ലൈനും 1 യൂണിറ്റായി നൽകിയിരിക്കുന്നു പീരിയഡ് 3 ഉം ഡെഡ്ലൈൻ 3 ഉം ആണ് ടാസ്ക് 2 ന് എക്സിക്യൂഷൻ സമയം 8 ഉം പീരിയഡ്ഉം ഡെഡ്ലൈനും 12 ആണ് ഈ ടാസ്ക് സെറ്റ് പ്രായോഗികമായി റൺ ചെയ്യും ഒരു EDF ഷെഡ്യൂളർ ഉപയോഗിച്ച് കൊണ്ട് ∑ey ≤ 1 എന്ന പദപ്രയോഗം ഉപയോഗിച്ചാണ് ഉത്തരം ലഭിക്കുന്നത് ടാസ്ക് 1 മൂലമുള്ള യൂട്ടിലൈസഷൻ 13 ആണ് ഓരോ 3 യൂണിറ്റുകൾക്ക് 1 യൂണിറ്റ് എക്സിക്യൂഷൻ ആവശ്യമാണ് ടാസ്ക് 2 മൂലമുള്ള യൂട്ടിലൈസഷൻ 812 ആണ് ഇത് 0 67 ഉം ∑ey1ഒപ്പം1 ≤ 1 അതിനാൽ ഈ ടാസ്ക് സെറ്റ് EDF ഷെഡ്യൂളർ ഉപയോഗിച്ച് ഷെഡ്യൂൾ ചെയ്യാൻ സാധ്യതയുണ്ട് രണ്ട് ജോലികളും T1 T2 ടാസ്ക് ഇൻസ്റ്റൻസ് കൃത്യസമയത്ത് എത്തിച്ചേരുമെന്ന് നമുക്ക് അനുമാനിക്കാം 0 ടൈമിൽ രണ്ട് ജോലികളും എത്തിച്ചേരുകയും ഷെഡ്യൂളർ ഉണരുകയും ചെയ്യും കാരണം ഇത് ഒരു ഷെഡ്യൂളിംഗ് പോയിന്റാണ് ഇത് ഏർലിസ്റ് ഡെഡ്ലൈൻ കൂടെ ടാസ്ക് ഏറ്റെടുക്കും T1നും T2 നും ഇടയിൽ ഒരാൾക്ക് ഏർലിസ്റ് ഡെഡ്ലൈൻ 3 ഉം മറ്റൊന്ന് ഡെഡ്ലൈൻ 12 ഉം ആണ് ഇത് ടാസ്ക് T1 ഏറ്റെടുക്കും ടാസ്ക് T1 ന്റെ ആദ്യ ഇൻസ്റ്റൻസ് അത് നടപ്പിലാക്കുന്നതിനുള്ള ഏർലിസ്റ് ഡെഡ്ലൈൻ എടുക്കും ഇത് ഒരു യൂണിറ്റിന് ശേഷം പൂർത്തിയാക്കുന്നു കാരണം T1 ന്റെ എക്സിക്യൂഷൻ സമയം 1 ആണ് ആ സമയത്ത് ഒരു ഷെഡ്യൂളിംഗ് പോയിന്റ് നിർവചിക്കുകയും ഷെഡ്യൂളർ ഉണരുകയും T21 എന്ന ഒരു റെഡി ടാസ്ക് മാത്രമേ ഉള്ളൂവെന്ന് കണ്ടെത്തുകയും ചെയ്യും അതു T21 എക്സിക്യൂട്ട് ചെയാൻ തുടങ്ങുന്നു T21 2 ടൈം യൂണിറ്റ് എക്സിക്യൂട്ട് ചെയുന്നു അതുപോലെ 3ആമത്തെ ടൈം ഇൻസ്റ്റൻസിൽ T1 വന്നെത്തുന്നു അതിനു ശേഷം ഡെഡ്ലൈൻ പരിശോദിക്കുന്നു അതിൽ നിന്നും T1 ഡെഡ്ലൈൻ T2നേക്കാൾ കുറവാണ് എന്നു മനസിലാകുന്നു അങ്ങനെ T1ന്ടെ 2ആമത്തെ ഇൻസ്റ്റൻസ് റൺ ചെയാൻ തുടങ്ങുന്നു ഒരു ടൈം ഇൻസ്റ്റൻസ് ശേഷം T21 തിരിച്ചു പിടിക്കുന്നു അത് T21 2യൂണിറ്റ് റൺ ചെയ്യും കാരണം T21ന്ടെ മുഴുവൻ സമയ ആവശ്യകത 8യൂണിറ്റ് ആണ് ടൈം ഇൻസ്റ്റൻസിൽ T1ന്ടെ 6 എന്ന മൂന്നാമത്തെ ഇൻസ്റ്റൻസ് വരുന്നു അതിന്ടെ ഡെഡ്ലൈൻ T2നെകാളും ചെറുത് ആണ് അതുകൊണ്ട് അതു T2നേ പ്രീ എംപ്ട് ചെയുന്നു അതിനു ശേഷം T1 റൺ ചെയാൻ തുടങ്ങുന്നു അതിന്ടെ പിന്നിൽ T2 റൺ ചെയുന്നു ഇത് പ്രവർത്തിക്കാൻ തുടങ്ങുന്ന ഓരോ ഷെഡ്യൂളിംഗ് പോയിന്റിലും EDF ഷെഡ്യൂളറിന് പിന്നിലെ അടിസ്ഥാന ആശയമാണിത് തുടർന്ന് കുറഞ്ഞ ഡെഡ്ലൈൻ ഉള്ള ടാസ്ക് തീരുമാനിക്കുകയും അത് നടപ്പിലാക്കാൻ എടുക്കുകയും ചെയ്യുന്നു ഉദാഹരണത്തിന് നമുക്ക് ഒരു ടാസ്ക് സെറ്റ് 3 ഉണ്ട് ടാസ്ക്കുകൾക്ക് T1ന്ടെ എക്സിക്യൂഷൻ സമയം 1 പീരിയഡ് 4 ഡെഡ്ലൈൻ 4 ടാസ്ക്2 ന് എക്സിക്യൂഷൻ സമയം 1 പീരിയഡ് 5 ഡെഡ്ലൈൻ 5 ടാസ്ക് 3 ന് എക്സിക്യൂഷൻ സമയം 5 പീരിയഡ് 20 ഡെഡ്ലൈൻ 20 എന്നിവയുണ്ട് ഇത് സാധാരണയായി ഒരു റിയൽ ടൈം അപ്ലിക്കേഷനിൽ സജ്ജമാക്കിയിരിക്കുന്ന ടാസ്ക് ആണ് അവയുടെ പീരിയഡ്ഉം ഡെഡ്ലൈനും ഒന്നുതന്നെയാണ് ഏറ്റവും വേർസ്റ് ടാസ്കുക്ൿ പീരിയോഡിക്കും അവയുടെ പീരിയഡ്ഉം ഡെഡ്ലൈനും ഒന്നുതന്നെയാണ് എക്സിക്യൂഷൻ ടൈം പീരിയഡ്ന്ടെ ഫ്രാക്ഷൻ ആണ് ഇത് EDF ഷെഡ്യൂൾ ചെയ്യാനാകുമോയെന്ന് പരിശോധിക്കാൻ നമ്മുടെ കൈവശമുള്ള പദപ്രയോഗം ഉപയോഗിക്കേണ്ടതുണ്ട് Σ≤1 T1 മൂലമുള്ള യൂട്ടിലൈസഷൻ 1 മുതൽ 4 വരെയും T2 മൂലമുള്ള യൂട്ടിലൈസഷൻ 1 മുതൽ 5 വരെയും T3 മൂലമുള്ള യൂട്ടിലൈസഷൻ 5 മുതൽ 20 വരെയും 1 മുതൽ 4 വരെയുമാണ് തുടർന്ന് നമ്മൾ ഇത് സംഗ്രഹിക്കുന്നു ഇത് ഷെഡ്യൂൾ ചെയ്യാനാകുമോ ഇല്ലയോ എന്ന് പരിശോധിക്കുക അൽഗോരിതം ഇവന്റ് ഡ്രൈവ്എൻ ഷെഡ്യൂളറുകളിൽ 2 ക്ലാസുകളുണ്ട് ഒന്ന് സ്റ്റാറ്റിക് ഷെഡ്യൂളറുകൾ മറ്റൊന്ന് ഡൈനാമിക് പ്രിയോറിറ്റി ഷെഡ്യൂളർനമ്മൾ പറഞ്ഞഇരുന്നു EDF ഒരു ഡൈനാമിക് പ്രിയോറിറ്റി ഷെഡ്യൂളറാണ് പക്ഷേ EDF ഒരു ഡൈനാമിക് പ്രിയോറിറ്റി ഷെഡ്യൂളറാണെങ്കിൽ നമുക്ക് ഒരു ആശയം ഉണ്ടായിരിക്കണം പ്രിയോറിറ്റി അതോടൊപ്പം ഒരു ടാസ്ക്കിന്റെ പ്രിയോറിറ്റി നിർണ്ണയിക്കാൻ നമുക്ക് കഴിയണം പ്രവർത്തിക്കുന്ന ഒരു ടാസ്ക്കിന്റെ പ്രിയോറിറ്റി എത്തിച്ചേരുന്ന ടാസ്ക്കിനേക്കാൾ വലുതാണോ അല്ലെങ്കിൽ എത്തിച്ചേരുന്ന ടാസ്ക്കിന് ഉയർന്ന പ്രിയോറിറ്റി ഉണ്ടോ എന്ന് പരിശോധിക്കാൻ നമുക്ക് കഴിയണം നമ്മൾ ഒരിക്കലും പ്രിയോറിറ്റിയോടെ ഒന്നും പരാമർശിച്ചിട്ടില്ല ഷെഡ്യൂളർ ഏർലിസ്റ് ഡെഡ്ലൈനിനു ഉള്ള ടാസ്ക് പരിശോധിക്കുകയും അത് ഷെഡ്യൂൾ ചെയ്യുകയും ചെയ്യുന്നു ഒരു ടാസ്ക്കിന്റെ പ്രിയോറിറ്റി കണക്കാക്കാൻ നമുക്ക് കഴിയണം മാത്രമല്ല കാലത്തിനനുസരിച്ച് അത് മാറുന്നുവെന്ന് കാണിക്കാനും നമുക്ക് കഴിയണം അപ്പോൾ മാത്രമേ നമുക്ക് ഇതിനെ ഡൈനാമിക് പ്രിയോറിറ്റി അൽഗോരിതം എന്ന് വിളിക്കാൻ കഴിയൂ പക്ഷേ സമയത്തിനനുസരിച്ച് പ്രിയോറിറ്റി മാറുന്നതിനെക്കുറിച്ച് ഒന്നുമില്ല അതിനാൽ ഇതിനെ ഡൈനാമിക് പ്രിയോറിറ്റി ഷെഡ്യൂളിംഗ് അൽഗോരിതം എന്ന് വിളിക്കാൻ കഴിയുമോ എന്ന ചോദ്യം ഉയരുന്നു ഇതിനുള്ള ഉത്തരം മറ്റ് ഉയർന്ന പ്രിയോറിറ്റി അൽഗോരിതം ഉള്ളതിനാലോ അല്ലെങ്കിൽ അവ എടുത്ത ഡെഡ്ലൈൻ കുറവായതിനാലോ ടാസ്ക് കാത്തിരിക്കുമ്പോഴാണ് പക്ഷേ ടാസ്ക് കാത്തിരിക്കുന്നതിനനുസരിച്ച് അത് ഏറ്റെടുക്കുന്നതിനുള്ള സാധ്യത വർദ്ധിക്കുന്നു ഒരു ടാസ്കുമായി ബന്ധപ്പെട്ട ഒരു വെർച്വൽ പ്രിയോറിറ്റി മൂല്യം നമുക്ക് സങ്കല്പിക്കാൻ കഴിയും ഷെഡ്യൂളിംഗിനായി ടാസ്ക് ഏറ്റെടുക്കുന്നതുവരെ ഇത് സമയത്തിനനുസരിച്ച് വർദ്ധിച്ചുകൊണ്ടിരിക്കും EDF ഒപ്റ്റിമൽ അൽഗോരിതം എന്നറിയപ്പെടുന്നതിനാൽ EDFന് കഴിയുന്നില്ലെങ്കിൽ ഒരു കൂട്ടം ടാസ്ക്കുകൾ ഷെഡ്യൂൾ ചെയ്യാൻ കഴിയുന്ന മറ്റൊരു അൽഗോരിതം ഉണ്ടാകില്ല ഓരോ ഷെഡ്യൂളിംഗ് പോയിന്റിലും ഇത് വളരെ ലളിതമായ അൽഗോരിതം ആണ് ഇത് ഏറ്റവും കുറഞ്ഞ ഡെഡ്ലൈൻ ഉള്ളത് എന്നു പരിശോധിക്കുകയും അത് നടപ്പിലാക്കുന്നതിനായി എടുക്കുകയും ചെയ്യുന്നു പക്ഷേ ഇത് ജനപ്രിയമല്ല മാത്രമല്ല ഇത് ആപ്ലിക്കേഷനുകളിൽ വളരെ അപൂർവമായി മാത്രമേ ഉപയോഗിക്കൂ വാസ്തവത്തിൽ വാണിജ്യ ഓപ്പറേറ്റിംഗ് സിസ്റ്റങ്ങളൊന്നും EDFനേ നേരിട്ട് പിന്തുണയ്ക്കുന്നില്ല ഓപ്പറേറ്റിംഗ് സിസ്റ്റം ലഭ്യമായ പിന്തുണ ഉപയോഗിച്ച് നമ്മൾ സ്വയം EDF ഷെഡ്യൂളർ നടപ്പിലാക്കേണ്ടതുണ്ടെങ്കിൽ EDF ഷെഡ്യൂളർ തിരഞ്ഞെടുക്കാനാവില്ല ഇത് വളരെ നല്ല അൽഗോരിതം ആണെങ്കിലും കാര്യക്ഷമവും ലളിതവുമാണ് പക്ഷേ അതിന്റെ ഗുരുതരമായ പോരായ്മകൾ കാരണം വളരെ കുറച്ച് അപ്ലിക്കേഷനുകൾ ഇത് ഉപയോഗിക്കുന്നു ഷെഡ്യൂളറിന്റെ ചില പ്രധാന പോരായ്മകൾ ഇനിപ്പറയുന്നവയാണ് ആദ്യത്തെ പോരായ്മ മോശം ക്ഷണികമായ ഓവർലോഡ് കൈകാര്യം ചെയ്യലാണ് അതായത് ചില കാരണങ്ങളാൽ ഒരു ടാസ്ക് നിർവ്വഹിക്കുന്നതിന് കൂടുതൽ സമയം എടുക്കുന്നുണ്ടെങ്കിൽ ഒരുപക്ഷേ അത് ഒരു കോഡിൽ നീളമുള പാതയിലൂടെ ആകാം പോകുന്നത് അല്ലെങ്കിൽ സംഭവിക്കാത്ത ചില അവസ്ഥകൾക്കായി കാത്തിരിക്കാം അല്ലെങ്കിൽ ഒരുപക്ഷേ അത് പോയിരിക്കാം അനന്തമായ ലൂപ്പിലേക്ക് ക്ഷണികമായ ഓവർലോഡ് ഉള്ള സന്ദർഭങ്ങളിൽ ഏത് ടാസ്ക് ഡെഡ്ലൈൻ നഷ്ടപ്പെടുമെന്ന് അറിയില്ല പ്രിയോറിറ്റി ടാസ്ക് വളരെ കുറവായതിനാൽ ഏറ്റവും പ്രധാനപ്പെട്ട ടാസ്ക്കിന് പോലും ഡെഡ്ലൈൻ നഷ്ടപ്പെടാം അല്ലെങ്കിൽ കാലതാമസം നേരിടാം EDF നടപ്പിലാക്കുന്നത് ഒരു പ്രശ്നമാണ് കാരണം ഇവിടെ എല്ലാ ജോലികളും സൂക്ഷിക്കേണ്ടതുണ്ട് N ടാസ്ക്കുകൾ ഉണ്ടെങ്കിൽ ഈ n ടാസ്ക്കുകൾ പരിപാലിക്കേണ്ടതുണ്ട് അതിനാൽ ഷെഡ്യൂളർ എല്ലാ ടാസ്ക്കുകളുടെയും കംപ്ലീഷൻ ടൈം നിർണ്ണയിക്കേണ്ടതുണ്ട് ഏർലിസ്റ് ഡെഡ്ലൈനിനു വേണ്ടി പൊരുതാൻ അൽഗോരിത്തിന്റെ റൺടൈം ഇൻഎഫിഷേൻസി EDF ഷെഡ്യൂളറിന്റെ ചില കാര്യക്ഷമമായ നടപ്പാക്കലുകൾ നമ്മൾ കാണും പക്ഷേ അവ മതിയായതല്ല മറ്റ് ഷെഡ്യൂളറുകൾ കൂടുതൽ കാര്യക്ഷമമാണ് രണ്ടാമത്തേത് റൺടൈം കഴിവില്ലായ്മയാണ് മൂന്നാമത്തേത് ടാസ്ക്കുകൾക്കിടയിൽ റിസോഴ്സ്സ് പങ്കിടലിനുള്ള പിന്തുണ കുറവാണ് ഇത് ഏറ്റവും വ്യക്തമായ പോരായ്മയാണ് നിസ്സാരമല്ലാത്ത അപ്ലിക്കേഷനുകൾ EDF ഉപയോഗിക്കാത്തതിന്റെ കാരണവും ഇതായിരിക്കാം ഒരു റിയലിസ്റ്റിക് അപ്ലിക്കേഷനിൽ ടാസ്ക്കുകൾ റിസോഴ്സ്സ് പങ്കിടുന്നു ഒരു ടാസ്ക് ഉൽപാദിപ്പിക്കുന്ന ഫലം മറ്റ് ടാസ്ക്കുകൾ ഉപയോഗിക്കുന്നു മറ്റ് തരത്തിലുള്ള ഷെഡ്യൂളറുകൾ നമ്മൾ കാണും ഉദാഹരണത്തിന് റിസോഴ്സ്സ് ഷെറിങ് കൈകാര്യം ചെയ്യുന്നതിന് റേറ്റ് മോണോടോണിക് വിപുലീകരിക്കാൻ കഴിയും പക്ഷേ EDFഇൽ നമ്മൾ റിസോഴ്സ്സ് പങ്കിടൽ അനുവദിക്കുകയാണെങ്കിൽ അത് ശരിക്കും വളരെയധികം പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നു അത് ഉപയോഗിക്കാൻ കഴിയില്ല മൂന്നാമത്തേത് EDF ജനപ്രിയമാകാതിരിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണമായിരിക്കാം എന്നാൽ മറ്റ് 2 കാരണങ്ങളും മോശമാണ് റൺടൈം കാര്യക്ഷമതയില്ലായ്മ കാരണം നമുക്ക് കൂടുതൽ കാര്യക്ഷമമായ ഷെഡ്യൂളറുകൾ ഉണ്ടാകാൻ കഴിയില്ല സിസ്റ്റത്തിൽ ക്ഷണികമായ ഓവർലോഡ് കൈകാര്യം ചെയ്യൽ കാരണം ഒരു ചെറിയ ഓവർലോഡ് ഉണ്ടെങ്കിൽ പോലും സിസ്റ്റം തകരും ഒരു സിസ്റ്റത്തിൽ ക്ഷണികമായ ഓവർലോഡ് സംഭവിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് നമുക്ക് മനസിലാക്കാം ഒരു ടാസ്ക് കണക്കാക്കിയതിനേക്കാൾ കൂടുതൽ സമയം എടുക്കുമ്പോഴോ അല്ലെങ്കിൽ തൽക്ഷണം നിരവധി ജോലികൾ ഉണ്ടാകുമ്പോഴോ ഒരു ക്ഷണിക ഓവർലോഡ് സംഭവിക്കുന്നു ഒരു നിർവ്വഹണ ചുമതല EDF ൽ കൂടുതൽ സമയം എടുക്കുമ്പോൾ അതിന്റെ ഡെഡ്ലൈൻ നഷ്ടമായേക്കാവുന്ന ടാസ്ക് പ്രവചിക്കാൻ പ്രയാസമാണ് ഒരു ലോഗിംഗ് ടാസ്ക് ഇവന്റ് ലോഗിംഗ് ടാസ്ക് അല്ലെങ്കിൽ റിസൾട്ട് ലോഗിംഗ് ടാസ്ക് പോലുള്ള വളരെ ലളിതമായ ഒരു ടാസ്ക് കാരണം ഏറ്റവും പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ഏറ്റവും നിർണായകമായ ടാസ്കിനു പോലും അതിന്റെ ഡെഡ്ലൈൻ നഷ്ടപ്പെടാം ഇത് ഡിസ്കിൽ ശരിയായി എഴുതാൻ കഴിയാത്തതിനാലോ അല്ലെങ്കിൽ അത് എടുക്കുന്നതിനാലോ സംഭവിച്ചിരിക്കാം കൂടുതൽ സമയം പക്ഷേ ലോഗ് ഇവന്റുകളൊന്നും സംഭവിച്ചില്ലെങ്കിലോ നമ്മൾ ഒന്നും ലോഗിൻ ചെയ്യുന്നില്ലെങ്കിലോ ലോഗ് ഫലങ്ങളിൽ വളരെ കഠിനമായ ഒരു സാഹചര്യം സംഭവിക്കുന്നു ഏതെങ്കിലും ഇവന്റ് ലോഗർ അല്ലെങ്കിൽ റിസൾട്ട് ലോഗർ കാരണം നിർണായക ടാസ്ക് അതിന്റെ ഡെഡ്ലൈൻ നഷ്ടപ്പെടുത്തുന്ന സാഹചര്യം നമുക്ക് ആവശ്യമില്ല എന്നാൽ ഇവിടെ ഈ ഷെഡ്യൂളറിൽ ഇത് സംഭവിക്കാം കാരണം ലോഗർ ടാസ്ക് കൂടുതൽ സമയമെടുക്കുകയും നിർണായക ടാസ്ക് അതിന്റെ ഡെഡ്ലൈൻ നഷ്ടപ്പെടുത്തുകയും ചെയ്തു ഓരോ തവണയും ഷെഡ്യൂളർ നടപ്പിലാക്കാൻ കാത്തിരിക്കുന്ന ടാസ്കുകൾ നോക്കേണ്ടതുണ്ടെന്ന് നമ്മൾ പറഞ്ഞതുപോലെ റൺടൈം കാര്യക്ഷമതയില്ലായ്മ അവിടെ ലളിതമായ നടപ്പാക്കൽ ഒരു ക്യൂ ആകാം തുടർന്ന് ഓരോ ജോലിയുടെയും ഡെഡ്ലൈൻ കണക്കാക്കുകയും ടാസ്ക് പൂർത്തീകരിക്കുന്നതിന് ശേഷിക്കുകയും ചെയ്യുന്നു ഒരു നടപ്പാക്കൽ പ്രിയോറിറ്റി ക്യൂ അടിസ്ഥാനമാക്കിയുള്ളതാകാം മുൻഗണനാ ക്യൂ അടിസ്ഥാനമാക്കിയുള്ള നടപ്പാക്കലും വളരെ കാര്യക്ഷമമല്ലെന്ന് നമ്മൾ കാണും കാരണം ഒരു മുൻഗണനാ ക്യൂവിൽ പോലും മുൻഗണനാ ക്യൂവിലേക്ക് ഒരു ടാസ്ക് ഉൾപ്പെടുത്തുന്നതിന് നമ്മൾ log സമയം ആവശ്യമാണ് ഇവിടെ n കാത്തിരിക്കുന്ന ടാസ്കിന്റെ എണ്ണം ആണ് ഇവന്റ് ഡ്രൈവ്എൻ ഷെഡ്യൂളറുകൾ നിസ്സാരമല്ലാത്ത അപ്ലിക്കേഷനുകളിൽ ഉപയോഗിക്കുന്നു നമുക്ക് ഡസൻ കണക്കിന് ടാസ്ക്കുകൾ ഉണ്ടായിരിക്കാം ഒപ്പം log വളരെ കാര്യക്ഷമമായ സാഹചര്യമല്ല ഒരു സമയം ഏറ്റവും ഉയർന്ന പ്രിയോറിറ്റി തിരഞ്ഞെടുത്തു പ്രിയോറിറ്റി ക്യൂ ഉപയോഗിച്ചാലും ഫലം വളരെ പ്രോത്സാഹജനകമല്ല പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ തയ്യാറായ ടാസ്ക് നിലനിർത്തുന്നതിന് നമ്മൾ സിമ്പിൾ ലിങ്ക് ലിസ്റ്റോ സിമ്പിൾ ക്യൂവോ ഉപയോഗിക്കുകയാണെങ്കിൽ അത് O ഇതിനെക്കാൾ മോശമായതും മുൻഗണനാ ക്യൂ ഉപയോഗിക്കുന്നത് പോലും പ്രോത്സാഹജനകമല്ല നമുക്ക് ഒരു പ്രിയോറിറ്റി ക്യൂവിൽ മെച്ചപ്പെട്ട് നടപ്പാക്കാൻ കഴിയുമോ എന്ന് നോക്കാം പക്ഷേ അതു നമുക്ക് അടുത്ത പ്രഭാഷണത്തിൽ നോക്കാം